ഹലോ physically unclonable ഫംഗ്ഷനുകളുടെ മൂന്നാം ഭാഗത്തിലേക്ക് സ്വാഗതം ഇത് എൻപിടിഎൽ കോഴ്സിന്റെ secure സിസ്റ്റംസ് എഞ്ചിനീയറിംഗിന്റെ ഭാഗമാണ് മുമ്പത്തെ 2 വീഡിയോ ക്ലാസ്സുകളിൽ physically unclonable ഫംഗ്ഷനുകളുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഒരു ആമുഖം കണ്ടു ഇത് അടിസ്ഥാനപരമായി ഒരു ഡിജിറ്റൽ ഫിംഗർപ്രിന്റിംഗ് സാങ്കേതികതയാണെന്ന് നമ്മൾ കണ്ടു ഒരു ഉപകരണത്തിൽ സംഭരിച്ചിരിക്കുന്ന രഹസ്യ കീകൾ ഉപയോഗിക്കാതെ authentication പോലുള്ള കാര്യങ്ങൾ നേടാൻ ഇത് ഉപയോഗിക്കുന്നു authentication പോലുള്ള ക്രിപ്റ്റോഗ്രാഫിക് ആവശ്യങ്ങൾക്ക് യഥാർത്ഥത്തിൽ ഉപയോഗപ്രദമാകുന്നതിന് ഓരോ പി എഫിനും നല്ല ഇൻട്രാ ഇന്റർ ചിപ്പ് വ്യതിയാനം ആവശ്യമാണെന്ന് നമ്മൾ കണ്ടു ഈ ക്ലാസ്സിൽ authentication നൽകുന്നതിന് PUF കൾ എങ്ങനെ ഉപയോഗിക്കാം എന്നു നമ്മൾ പരിശോധിക്കും യഥാർത്ഥത്തിൽ ഇവിടെ ഒരു സെർവർ ഉള്ള സജ്ജീകരണമാണ് നമ്മൾ പരിഗണിക്കുന്നത് അവിടെ ഒരു എഡ്ജ് ഉപകരണമുണ്ട് ഈ എഡ്ജ് deviceൽ ഒരു physically unclonable ഫങ്ക്ഷൻ നിലവിലുണ്ട് നമ്മൾ ഇവിടെ പരിഹരിക്കാൻ ശ്രമിക്കുന്ന പ്രശ്നം PUF ഉപയോഗിച്ച് ഈ പ്രത്യേക ഉപകരണത്തെ സെർവർ എങ്ങനെ authenticate ചെയ്യുന്നു എന്നതാണ് അതിനുള്ള മാർഗ്ഗം ഈ PUF നിർമ്മിക്കുന്ന സമയത്ത് നിർമ്മാതാവ് ചാലഞ്ച് കൾക്കും അനുബന്ധ response കൾക്കുമായി ഒരു ഡാറ്റാബേസ് സൃഷ്ടിക്കും എന്നതാണ് ഇവിടെയുള്ള ഈ ഡാറ്റാബേസ് CRP ഡാറ്റാബേസ് എന്നറിയപ്പെടുന്നു മാത്രമല്ല ഇത് സെർവറിൽ സംഭരിക്കുകയും ചെയ്യും CRP ഡാറ്റാബേസിൽ ഒരു ചാലഞ്ച് ഉം ഈ പ്രത്യേക ഉപകരണത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന response ഉം അടങ്ങിയിരിക്കുന്നു ഈ എഡ്ജ് device ഫീൽഡ് ചെയ്യുകയും അത് ചില ആപ്ലിക്കേഷനുകളിൽ ഉപയോഗിക്കുകയും ചെയ്യുമ്പോൾ സെർവറിന് ഈ ഉപകരണം authenticate ചെയ്യേണ്ടതുണ്ട് അത്തരം authenticate ആവശ്യമായി വരുമ്പോൾ സെർവർ CRP പട്ടികയിൽ നിന്ന് ഒരു ചാലഞ്ച് എടുത്ത് ഈ എഡ്ജ് ഉപകരണത്തിലേക്ക് അയയ്ക്കും എഡ്ജ് ഉപകരണം ഈ ചാലഞ്ച് അതിന്റെ PUF ൽ ഉപയോഗിക്കുകയും അനുബന്ധ പ്രതികരണം നേടുകയും ചെയ്യും തുടർന്ന് ഈ പ്രതികരണം സെർവറിലേക്ക് തിരികെ അയയ്ക്കും ക്രിപ്റ്റോഗ്രഫിയോ എൻക്രിപ്ഷനോ ഡീക്രിപ്ഷനോ മറ്റേതെങ്കിലും സംഭരിച്ച കീകളോ എഡ്ജ് ഉപകരണത്തിൽ നിലവിലില്ലെന്ന് നമ്മൾ അനുമാനിക്കുന്നതിനാൽ ചാലഞ്ച് ഉം പ്രതികരണവും വ്യക്തമായ വാചകരൂപത്തിൽ ആയിരിക്കും അയക്കുക എഡ്ജ് ഉപകരണത്തിൽ നിന്ന് സെർവർ പ്രതികരണം നേടികഴിഞ്ഞാൽ അത് സംഭരിച്ച സിആർപി ഡാറ്റാബേസിലേക്ക് നോക്കും കൂടാതെ ഡാറ്റാബേസിൽ സംഭരിച്ചിരിക്കുന്ന സിആർപി പ്രതികരണത്തെ എഡ്ജ് ഉപകരണത്തിൽ നിന്ന് ലഭിച്ച പ്രതികരണവുമായി താരതമ്യം ചെയ്യും അടിസ്ഥാനപരമായി ഇത് രണ്ടും തമ്മിലുള്ള ഹാമിംഗ് ദൂരം നോക്കുകയും ഈ പ്രതികരണം യഥാർത്ഥത്തിൽ ഈ നിർദ്ദിഷ്ട ഉപകരണത്തിൽ നിന്നാണോ ഉത്ഭവിച്ചതെന്ന് നിർണ്ണയിക്കുകയും ആണ് ചെയ്യുന്നത് അതിനാൽ ഈ രീതിയിൽ എഡ്ജ് ഉപകരണം authenticate ചെയ്യും ഉദാഹരണത്തിന് മറ്റൊരു robe ഉപകരണം ഇവിടെ നിലവിലുണ്ടെന്നും അത് യഥാർത്ഥ എഡ്ജ് ഉപകരണമായി തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുകയാണെന്നും നമുക്ക് പറയാം സെർവർ ചാലഞ്ച് അയയ്ക്കുമ്പോൾ PUF ന്റെ സവിശേഷതകൾ പ്രതികരണം എന്താണെന്ന് പ്രവചിക്കാൻ പ്രയാസമാക്കും കൂടാതെ ഈ robe ഉപകരണത്തിൽ PUF നടപ്പിലാക്കിയിട്ടുണ്ടെങ്കിൽപ്പോലും ശരിയായ എഡ്ജ് ഉപകരണത്തിൽ നിന്നുള്ള യഥാർത്ഥ പ്രതികരണത്തേക്കാൾ വളരെ വ്യത്യസ്തമായിരിക്കും ഈ പ്രതികരണം അതിനാൽ പ്രതികരണം സെർവറിലേക്ക് തിരികെ പോകുമ്പോൾ ഈ പ്രതികരണം ഡാറ്റാബേസിൽ സംഭരിച്ചിരിക്കുന്ന പ്രതികരണവുമായി പൊരുത്തപ്പെടുന്നില്ലെന്നും അതിനാൽ ഇത് ഉപകരണം നിരസിക്കുമെന്നും തിരിച്ചറിയാൻ സെർവറിന് കഴിയും എവിടെ authentication ഒരു പരാജയം ആണെന്നു പറയാം പിയുഎഫ് അടിസ്ഥാനമാക്കിയുള്ള authentication സാങ്കേതികതയിലെ ഒരു പ്രശ്നമാണ് Man in the Middle ചാലഞ്ച് ഉം പ്രതികരണവും വ്യക്തമായ വാചകത്തിൽ അയച്ചതാണെന്നും അതിനാൽ നടുവിലുള്ള ഏതൊരു മനുഷ്യനും ചാലഞ്ച് ഉം അനുബന്ധ പ്രതികരണവും കാണാമെന്നും ഓർമ്മിക്കുക സെർവർ യഥാർത്ഥത്തിൽ അതേ ചാലഞ്ച് വീണ്ടും അയച്ചാൽ Man in the Middle attacker ന് യഥാർത്ഥത്തിൽ ചാലഞ്ച് ഉപകരണത്തിലേക്ക് കൈമാറാതെ തന്നെ അതിനോട് പ്രതികരിക്കാൻ കഴിയും പിയുഎഫുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങളിൽ Man in the Middle തടയുന്നതിന് വേണ്ടത് ഒരിക്കൽ ഉപയോഗിച്ച സിആർപി വീണ്ടും ഉപയോഗിക്കരുത് എന്നതാണ് സെർവർ യഥാർത്ഥത്തിൽ ചാലഞ്ച് ഉപയോഗിക്കുകയും അനുബന്ധ പ്രതികരണം നേടുകയും ചെയ്താൽ അത് വീണ്ടും ഉപയോഗിക്കരുത് അതിനുവേണ്ടി ഈ സിആർപി ചാലഞ്ച് എൻട്രി ഡാറ്റാബേസിൽ നിന്ന് നിജീവമാക്കിയതോ നീക്കംചെയ്തതോ ആയി അടയാളപ്പെടുത്തണം അതിനാൽ Man in the middle attack ഒരു പരിധി വരെ തടയാൻ കഴിയും Man in the middle attack ഉൾപ്പെടുത്തുന്നതിനും സിആർപികളുടെ പുനരുപയോഗം തടയുന്നതിനുമുള്ള ഒരു നെഗറ്റീവ് വശം സിആർപി ഡാറ്റാബേസിന്റെ വലുപ്പം വളരെ വലുതായിരിക്കണം എന്നതാണ് സിആർപി പട്ടികകൾ സാധാരണയായി ഉപകരണം നിർമ്മിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ fill ചെയ്യുന്നതിന് മുമ്പോ സൃഷ്ടിച്ചതാണ് ഇതിന് കാരണം ഈ പ്രത്യേക എഡ്ജ് ഉപകരണത്തിന്റെ മുഴുവൻ ജീവിതകാലത്തും സെർവറിൽ മതിയായ ചാലഞ്ച് ഉം അനുബന്ധ പ്രതികരണങ്ങളും ഉണ്ടായിരിക്കണം അതിനാൽ ആനുകാലിക authentication ഉപകരണത്തിന്റെ മുഴുവൻ ജീവിതത്തിനും പിന്തുണയ്ക്കുന്നു ഉദാഹരണത്തിന് ഈ എഡ്ജ് ഉപകരണം നമ്മുടെ പക്കലുണ്ടെന്നും അത് ഒരു വിദൂര വൈദ്യുത നിലയത്തിലാണെന്നും ഈ എഡ്ജ് ഉപകരണം 3 വർഷത്തേക്ക് ഉപയോഗിക്കണമെന്നും കരുതുക കൂടാതെ എഡ്ജ് ഉപകരണം authenticate ചെയ്യുന്നതിന് എല്ലാ ദിവസവും ചാലഞ്ച് ഉം പ്രതികരണവും സെർവറിൽ നിന്ന് ഈ എഡ്ജ് ഉപകരണത്തിലേക്ക് അയയ്ക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ അനുമാനിക്കുന്നു സിആർപി ഡാറ്റാബേസിന് ഈ സിംഗിൾ എഡ്ജ് ഉപകരണത്തിന് അനുബന്ധമായി ആയിരത്തിലധികം വ്യത്യസ്ത വെല്ലുവിളികളും പ്രതികരണങ്ങളും ഉണ്ടായിരിക്കണമെന്നാണ് ഇതിനർത്ഥം അതിനാൽ പ്രാമാണീകരണത്തിന്റെ ആവർത്തനം ഓരോ അപ്ലിക്കേഷൻ നും വ്യത്യാസപ്പെടും ഇത് ഒരു ദിവസം authenticate ചെയ്യുന്നതിനേക്കാൾ വളരെ ചെറുതായിരിക്കാം ഓരോ 45 മിനിറ്റിലും അതിൽ കൂടുതലും authentication ആവശ്യമുള്ള അപ്ലിക്കേഷനുകൾ നിങ്ങൾക്ക് ഉണ്ടാകാം അതിനാൽ നിങ്ങൾക്ക് വളരെ വലിയ CRP പട്ടികകൾ ആവശ്യമാണ് ഓരോ സിആർപി പട്ടികയും ഉപകരണ നിർദ്ദിഷ്ടമാണെന്നും ഞങ്ങൾ കാണുന്നു ഇത് ശരിയാണ് കാരണം ഓരോ സിആർപി പ്രതികരണവും ഓരോ ഉപകരണത്തിനും അനുയോജ്യമായ അതുല്യമായ വെല്ലുവിളിക്കും പ്രതികരണങ്ങൾക്കും ഉള്ളതാണ് ഇതു കാര്യങ്ങൾ കൂടുതൽ വഷളാകുന്നു കാരണം ഒരൊറ്റ സെർവർ നിയന്ത്രിക്കുന്ന ഒന്നിലധികം ഉപകരണങ്ങൾ ഞങ്ങളുടെ കൈവശമുണ്ടെങ്കിൽ സെർവർ ഡാറ്റാബേസിൽ സംഭരിക്കേണ്ട അത്തരം നിരവധി സിആർപി പട്ടികകൾ ഉണ്ടാകും സിആർപി പട്ടികകൾ മോഷ്ടിക്കപ്പെടുകയോ സെർവറിന്റെ സ്വകാര്യത ലംഘിക്കുകയോ ചെയ്താൽ ഈ ഉപകരണങ്ങളുമായി ബന്ധപ്പെട്ട പിയുഎഫുകളുടെ മുഴുവൻ സുരക്ഷയും നഷ്ടപ്പെടും എന്നതാണ് പ്രശ്നമാകുന്ന മറ്റ് വശങ്ങൾ അതിനാൽ ഗവേഷകർ സിആർപി പട്ടികകളുടെ വലുപ്പം കുറയ്ക്കുന്നതിനോ അല്ലെങ്കിൽ പിയുഎഫുകൾ ഉപയോഗിക്കുമ്പോൾ പ്രാമാണീകരണ പ്രക്രിയയിൽ സിആർപി പട്ടികകളുടെ ഉപയോഗം ഇല്ലാതാക്കുന്നതിനോ കഴിയുന്ന നിരവധി ഇതര സാങ്കേതിക വിദ്യകൾ പരീക്ഷിക്കുന്നു വളരെ ജനപ്രിയമായ ഒരു മോഡലിനെ PUF ന്റെ രഹസ്യ മോഡൽ എന്ന് വിളിക്കുന്നു വ്യത്യസ്ത ചാലഞ്ച് കൾ നൽകുന്നതിനും പ്രതികരണങ്ങൾ നേടുന്നതിനും ഡാറ്റാബേസിൽ ചലഞ്ച് റെസ്പോൺസ് ജോഡികൾ സംഭരിക്കുന്നതിനും പകരം രഹസ്യ മോഡലായ PUF ൽ സംഭവിക്കുന്നത് നിർമ്മാതാവ് ഈ PUF ന്റെ സവിശേഷതകൾ പഠിക്കും എന്നതാണ് പ്രത്യേക PUF നായി ഒരു മാതൃക സൃഷ്ടിക്കുന്നു ഉദാഹരണത്തിന് ഈ Arbiter PUF ൽ നിലവിലുള്ള വിവിധ ഗേറ്റ് dalay യുടെ ഒരു ഡാറ്റാബേസ് സെർവറിന് നിർമ്മിക്കാൻ കഴിയും നിർദ്ദിഷ്ട Arbiter PUF നായി ഈ മോഡൽ സംഭരിക്കേണ്ടതുണ്ട് ഈ മോഡലിന് ചെയ്യാൻ കഴിയുന്നത് ഒരു പ്രത്യേക ചാലഞ്ച് നൽകിയാൽ ഈ പ്രത്യേക മോഡലിന് PUF നുള്ള പ്രതികരണം എന്താണെന്നതിന്റെ നല്ലൊരു എസ്റ്റിമേറ്റ് സൃഷ്ടിക്കാൻ കഴിയും അതിനാൽ PUF നായുള്ള ഈ മോഡൽ രഹസ്യമായി സൂക്ഷിക്കുകയും തുടർന്ന് ഉപകരണം യഥാർത്ഥത്തിൽ ഫീൽഡ് ചെയ്യുകയും authentication ആവശ്യമായി വരുമ്പോൾ സെർവർ ക്രമരഹിതമായി ഒരു പ്രത്യേക ചാലഞ്ച് തിരഞ്ഞെടുക്കുകയും ചെയ്യും ആ പ്രത്യേക ചാലഞ്ച് നായി പ്രതീക്ഷിക്കുന്ന പ്രതികരണം സൃഷ്ടിക്കുന്നതിന് PUF ന്റെ ഈ മാതൃക ഉപയോഗിക്കും അത് പിന്നീട് ഈ ഉപകരണത്തിലേക്ക് ഒരു ചാലഞ്ച് അയയ്ക്കുകയും പ്രതികരണം നേടുകയും ചെയ്യും അത് ഈ പ്രതികരണത്തെ മോഡലിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന പ്രതികരണവുമായി താരതമ്യം ചെയ്യും നിർദ്ദിഷ്ട ചാലഞ്ച് നായി ഉപകരണത്തിൽ നിന്ന് ലഭിച്ച പ്രതീക്ഷിച്ച പ്രതികരണവും യഥാർത്ഥ പ്രതികരണവും തമ്മിലുള്ള അടുത്ത പൊരുത്തം ഉപകരണം authenticate ചെയ്യുന്നതിന് ഉപയോഗിക്കും ഇത് നന്നായി പ്രവർത്തിക്കുന്നു പ്രത്യേകിച്ച് PUF സ്വിച്ചിൽ നിർമ്മാണ സമയത്ത് ഈ പിയുഎഫിന്റെ രഹസ്യ മോഡൽ എക്സ്ട്രാക്റ്റുചെയ്യാനാകുന്ന രീതിയിലാണ് ഞങ്ങൾ യഥാർത്ഥത്തിൽ മോഡലിംഗ് ചെയ്യുന്നത് എന്നിരുന്നാലും ഈ സാങ്കേതികതയ്ക്ക് ഇപ്പോഴും ഒരു പരിമിതി ഉണ്ട് ഈ PUF മോഡൽ ഇപ്പോഴും രഹസ്യമായി സൂക്ഷിക്കേണ്ടതുണ്ട് മാത്രമല്ല ഇത് വളരെ രഹസ്യമായിരിക്കേണ്ടതുമാണ് കാരണം ഈ മോഡൽ നഷ്ടപ്പെടുകയാണെങ്കിൽ ഏത് ആക്രമണകാരിക്കും സെർവറിൽ നിന്ന് ആ എഡ്ജ് ഉപകരണത്തിലേക്ക് അയച്ച ചാലഞ്ച് നെ മറികടക്കാൻ കഴിയും ഇത് മോഷ്ടിച്ചമോഡൽ ഉപയോഗിക്കുകയും പ്രതികരണം നൽകുകയും ചെയ്യും ഈ രീതിയിൽ attacker മെഷീന് യഥാർത്ഥത്തിൽ ഒരു PUF ഇല്ലാതെ തന്നെ authentication ചെയ്യാൻ കഴിയും പബ്ലിക് മോഡൽ PUF പോലുള്ള മറ്റുള്ളതിനെ കുറിച്ചും ഗവേഷണം നടത്തിയിട്ടുണ്ട് വിവിധ ഗേറ്റ് delay ഉപയോഗിച്ച് വികസിപ്പിച്ചെടുക്കുകയും സെർവറിൽ നിലവിലുള്ള ഡാറ്റാബേസിൽ സൂക്ഷിക്കുകയും ചെയ്യുന്ന PUF ന്റെ മോഡൽ രഹസ്യമായിരിക്കേണ്ടതില്ല എന്നതൊഴിച്ചാൽ ഈ പബ്ലിക് മോഡൽ PUF വളരെ സമാനമായ രീതിയിൽ പ്രവർത്തിക്കുന്നു ശരിയായ PUF ഉടമസ്ഥതയിലുള്ള യഥാർത്ഥ ഉപകരണത്തിലേക്ക് അയയ്ക്കുന്ന ഒരു പ്രത്യേക ചാലഞ്ച് ന് പ്രതികരണം ലഭിക്കാൻ കുറച്ച് നാനോസെക്കൻഡുകൾ എടുക്കും എന്നതാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വസ്തുത അതിനാൽ യഥാർത്ഥത്തിൽ PUF ഉള്ള ഉപകരണത്തിലേക്ക് ഒരു വെല്ലുവിളി അയച്ചാൽ സെർവർ വളരെ വേഗത്തിൽ പ്രതികരണം നേടും PUF ന്റെ ഈ പ്രത്യേക മോഡലിന്റെ ഒരു പകർപ്പ് യഥാർത്ഥത്തിൽ കൈവശം ഉള്ള ഒരു ആക്രമണകാരിയാണെങ്കിൽ ചാലഞ്ച് അയയ്ക്കുകയും ഈ പബ്ലിക് മോഡലിനെ അടിസ്ഥാനമാക്കി മോഡൽ കമ്പ്യൂട്ട് ചെയ്യുകയും ചെയ്യുന്നതിനു കനത്ത കമ്പ്യൂട്ടിംഗ് ഉറവിടങ്ങളായാൽ പോലും കുറച്ച് സമയമെടുക്കും അതിനാൽ ചാലഞ്ച് അയയ്ക്കുന്നതും ആക്രമണകാരിയായ ഉപകരണത്തിൽ നിന്ന് പ്രതികരണം നേടുന്നതും തമ്മിലുള്ള കാലതാമസം ഗണ്യമായി കണക്കാക്കും അതിനാൽ authentication ന്റെ ഈ രൂപത്തിൽ ആക്രമണകാരി ഒരു ക്രമരഹിതമായ വെല്ലുവിളി എടുക്കുന്നു ഈ പ്രത്യേക വെല്ലുവിളിക്ക് പ്രതീക്ഷിച്ച പ്രതികരണം നേടുന്നതിന് ഈ പബ്ലിക് മോഡൽ PUF ഉപയോഗിക്കുന്നു തുടർന്ന് ഉപകരണത്തിലേക്ക് ചാലഞ്ച് അയയ്ക്കുന്നു പ്രതികരണം ലഭിക്കുന്നതിന് എടുത്ത സമയവും ഇത് രേഖപ്പെടുത്തുന്നു എടുത്ത സമയം ചില പ്രത്യേക പരിധിയേക്കാൾ വലുതാണെങ്കിൽ ഈ സാഹചര്യത്തിൽ T0 ആണെങ്കിൽ പ്രതികരണം malicious ഉപകരണത്തിൽ നിന്നോ attacker ഉപകരണത്തിൽ നിന്നോ ലഭിച്ചതാണെന്നു കരുതി അതിനെ അവഗണിക്കുകയും authentication നിഷേധിക്കുകയും ചെയ്യും മറുവശത്ത് പ്രതികരണം അപ്ഡേറ്റ് ചെയ്യുന്നതിനുള്ള സമയം പരിധിയേക്കാൾ വളരെ കുറവാണെങ്കിൽ PUF ന്റെ ഈ മോഡലിൽ നിന്ന് പ്രതീക്ഷിച്ച പ്രതികരണത്തോടെ സെർവർ പ്രതികരണത്തെ validate ചെയ്യും പ്രതീക്ഷിച്ച പ്രതികരണവുമായി ഉള്ള പൊരുത്തം ഇതിനോട് വളരെ അടുത്താണെങ്കിൽ ഉപകരണം authenticate ചെയ്യും നെറ്റ്വർക്ക് കാലതാമസം റൂട്ടിംഗ് കാലതാമസം തുടങ്ങിയ ഘടകങ്ങൾ പരിഗണിക്കില്ലെന്ന് ഈ പ്രത്യേക സാങ്കേതികവിദ്യ അനുമാനിക്കുമ്പോൾ ചെറിയ പ്രാദേശിക നെറ്റ്വർക്കുകളുള്ള ചെറിയ സിസ്റ്റങ്ങൾക്ക് ഈ സാങ്കേതികവിദ്യ നന്നായി പ്രവർത്തിക്കും ഗണ്യമായ അളവിൽ ഗവേഷണം നടക്കുന്ന മറ്റൊരു സാങ്കേതികത ഹോമോമോർഫിക് എൻക്രിപ്ഷൻ എന്നറിയപ്പെടുന്ന ഒന്ന് ഉപയോഗിക്കുക എന്നതാണ് ഇത് ഉപയോഗിച്ച് ഈ പ്രത്യേക PUF നായി ജനറേറ്റുചെയ്യുന്ന ചലഞ്ച് പ്രതികരണ ജോഡികൾ എൻക്രിപ്റ്റ് ചെയ്യുകയും വിശ്വസനീയമല്ലാത്ത അന്തരീക്ഷത്തിൽ സംഭരിക്കുകയും ചെയ്യുന്നു ഹോമോമോർഫിക് എൻക്രിപ്ഷൻ ഉപയോഗിക്കുന്നതിന്റെ അടിസ്ഥാന കാരണം എൻക്രിപ്റ്റ് ചെയ്ത ഡാറ്റയിൽ പ്രത്യേക പ്രതികരണത്തിന്റെ validation നടത്താമെന്നതാണ് എൻക്രിപ്റ്റ് ചെയ്ത സിആർപി ഡാറ്റാബേസിൽ പ്രവർത്തിക്കുന്ന ഈ വിശ്വസനീയമല്ലാത്ത cloud സെർവറിന് യഥാർത്ഥത്തിൽ ഒരു പ്രത്യേക പ്രോഗ്രാം പ്രവർത്തിപ്പിക്കാൻ കഴിയുമെന്നാണ് ഇതിനർത്ഥം സിആർപി ഡാറ്റാബേസ് ഡീക്രിപ്റ്റ് ചെയ്യാതെ തന്നെ പ്രതികരണം സാധുതയുള്ളതാണോ അല്ലയോ എന്ന് അറിയാൻ കഴിയും അതിനാൽ പതിവുപോലെ ഈ പ്രത്യേക മോഡലിൽ സെർവർ യഥാർത്ഥത്തിൽ എഡ്ജ് ഉപകരണത്തിലേക്ക് പ്രത്യേക ചാലഞ്ച് അയയ്ക്കുകയും അനുബന്ധ പ്രതികരണം നേടുകയും ചെയ്യും ഇത് സാധുതയുള്ളതാണെങ്കിൽ ഈ പ്രതികരണം വിശ്വസനീയമല്ലാത്ത അന്തരീക്ഷത്തിലേക്ക് അയയ്ക്കുന്നു ഇത് ഒരു സാധാരണ ക്ലൌഡ് കമ്പ്യൂട്ടിംഗ് പരിതസ്ഥിതിയായിരിക്കും ഈ വിശ്വസനീയമല്ലാത്ത അന്തരീക്ഷത്തിൽ ഉപയോഗിക്കുന്ന ഹോമോമോർഫിക് എൻക്രിപ്ഷൻ ടെക്നിക് ഈ എൻക്രിപ്റ്റ് ചെയ്ത ഡാറ്റാബേസിൽ പ്രവർത്തിക്കുകയും പ്രതികരണം വാസ്തവത്തിൽ ഡാറ്റാബേസിൽ സംഭരിച്ചിരിക്കുന്ന പ്രതികരണമാണോ എന്ന് സാധൂകരിക്കുകയും ചെയ്യുന്നു ഈ രീതിയിൽ ക്ലൌഡ് വിശ്വസനീയമല്ലെങ്കിലും ഹോമോമോർഫിക് എൻക്രിപ്ഷൻ ഉള്ളതിനാൽ ഡാറ്റാബേസിന്റെ സുരക്ഷ ഉറപ്പാക്കുന്നു പിയുഎഫിലെ സിആർപി പ്രശ്നം പരിഹരിക്കുന്നതിനുള്ള നല്ലൊരു പരിഹാരമായി ഇതിനെ കാണാം ഈ ഹോമോമോർഫിക് എൻക്രിപ്ഷൻ പ്രാക്ടീസ് ചെയ്യുന്നതിന് ഇപ്പോഴും ധാരാളം ഗവേഷണങ്ങൾ നടക്കുന്നു ഒരു എൻക്രിപ്റ്റ് ചെയ്ത ഡാറ്റാബേസ് ഉപയോഗിച്ച് പ്രതികരണങ്ങൾ സാധൂകരിക്കാനും എൻക്രിപ്റ്റ് ചെയ്യാനും ഇപ്പോഴും ഗണ്യമായ സമയമെടുക്കുന്നു എന്നിരുന്നാലും ഈ സമയ ആവശ്യകതകൾ കുറയ്ക്കുന്നതിന് ധാരാളം ഗവേഷണങ്ങൾ നടക്കുന്നുണ്ട് authentication രഹസ്യ കീ ജനറേഷൻ മുതലായ വിവിധ ക്രിപ്റ്റോഗ്രാഫിക് കാര്യങ്ങൾ നേടുന്നതിന് വളരെ ഉപയോഗപ്രദമായ സാങ്കേതികതകളോ സംവിധാനങ്ങളോ ആണ് PUF കൾ ഒരു ഉപകരണത്തിൽ ഒരു PUF ഉണ്ടെങ്കിൽ വളരെ ചെറിയ വിരലടയാളം ഉപയോഗിച്ച് ആ പ്രത്യേക ഉപകരണം ക്ലോൺ ചെയ്യാൻ കഴിയില്ലെന്ന് ഉറപ്പാക്കുന്നു അനലോഗ് പിയുഎഫുകൾ സെൻസർ ഉപയോഗിക്കുന്ന പിയുഎഫുകൾ എന്നിവപോലുള്ള പുതിയ PUF കൾ കണ്ടെത്തുന്നതിനായി ധാരാളം ഗവേഷണങ്ങൾ നടക്കുന്നു സിആർപി പ്രശ്നം പരിഹരിക്കുന്നത് ഇപ്പോഴും വലിയ പ്രശ്നമായി നിൽക്കുന്നു കൂടാതെ സിആർപി പട്ടികകൾ യഥാർത്ഥത്തിൽ എങ്ങനെ കംപ്രസ്സുചെയ്യും അതുവഴി കാര്യക്ഷമതയും മെമ്മറി സംഭരണവും എങ്ങനെ കുറയ്ക്കാൻ കഴിയും എന്നതും ഒരു പ്രശ്നമാണ് ചരക്ക് ഉപകരണങ്ങളിൽ ഉപയോഗിക്കുന്നത് തടയുന്ന PUF കളിലെ ഒരു പ്രധാന പോരായ്മ മോഡൽ ബിൽഡിംഗ് ആക്രമണങ്ങൾ എന്നറിയപ്പെടുന്ന ആക്രമണങ്ങളാണ് ഒരു മോഡൽ ബിൽഡിംഗിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് നോക്കാം അതിൽ നിങ്ങൾക്ക് ഒരു സെർവറും ഉപകരണവുമുള്ള ഒരു സാഹചര്യം പരിഗണിക്കാം കൂടാതെ ഈ ഉപകരണത്തിന് ഒരു PUF ഉണ്ട് ഒരു നിശ്ചിത കാലയളവിൽ സെർവർ ചാലഞ്ച് അയയ്ക്കുകയും പ്രതികരണം നേടുകയും ചെയ്യുന്നു ഈ ചാലഞ്ച് കളെയും പ്രതികരണങ്ങളെയും വീക്ഷിക്കുന്ന ഒരു നിഷ്ക്രിയ ശ്രോതാവും ഉണ്ട് ഒരു നിശ്ചിത കാലയളവിൽ ആ PUF ന്റെ ഒരു മാതൃക നിർമ്മിക്കുന്നതിന് മെഷീൻ ലേണിംഗ് ടെക്നിക്കുകളോ മോഡൽ ബിൽഡിംഗ് ടെക്നിക്കുകളോ ഉപയോഗിക്കുന്നു ഒരു നിശ്ചിത എണ്ണം authentication ഉറപ്പാക്കിയ ശേഷം ഒരു നിശ്ചിത ചാലഞ്ച് നു ആക്രമണകാരിക്ക് ഈ മോഡൽ ഉപയോഗിച്ച് ചാലഞ്ച് നിർമ്മിക്കാനും പ്രതികരിക്കാനും കഴിയും അതിനാൽ authentication ഈ രീതിയിൽ തകരുമെന്ന് നിങ്ങൾ കാണുന്നു കാരണം നിലവിലെ PUF സ്വന്തമാക്കാതെ ആക്രമണകാരിക്ക് വെല്ലുവിളികൾക്ക് ശരിയായ പ്രതികരണങ്ങൾ നൽകാൻ കഴിയും പിയുഎഫിന്റെ മറ്റൊരു വലിയ പ്രശ്നം അത് കണക്കുകൂട്ടലിനെ തകർക്കുന്നു എന്നതാണ് ഉദാഹരണത്തിന് ഒരു പിയുഎഫ് കണക്കുകൂട്ടലിനിടെ ആക്രമണകാരിക്ക് യഥാർത്ഥത്തിൽ ഉപകരണം പിടിക്കാനും പവർ അല്ലെങ്കിൽ ground പ്ലെയിനിൽ സിനുസോയ്ഡൽ തരംഗങ്ങൾ ഉപയോഗിച്ചു ഉപകരണത്തിന്റെ പ്രവർത്തനം കൈകാര്യം ചെയ്യാനും കഴിയും തുടർന്ന് പിയുഎഫിൽ നിന്നുള്ള പ്രതികരണം മാറ്റാൻ കഴിയും PUF പ്രതികരണം ഒരു പ്രത്യേക പരിധിക്കപ്പുറം മാറ്റം വരുത്തിയാൽ authentication പരാജയപ്പെടും കാരണം സിആർപി പട്ടികയിൽ സംഭരിച്ചിരിക്കുന്ന പ്രതികരണവും പിയുഎഫ് ഹാർഡ്വെയർ നേടിയ പ്രതികരണവുമായി സെർവർ ഒരു വലിയ പൊരുത്തക്കേട് കണ്ടെത്തും ഇത് Denial of Service Attack പോലെയാണ് അവിടെ പ്രതികരണം എന്താണെന്ന് മനസിലാക്കുന്നതിനേക്കാൾ ആക്രമണകാരി അടിസ്ഥാനപരമായി ഉപകരണം authenticate ചെയ്യുന്നത് തടയുന്നു എന്നിരുന്നാലും ഭാരം കുറഞ്ഞ authentication ഉപകരണങ്ങൾക്ക് PUF കൾ വളരെ വാഗ്ദാനമാണ് മാത്രമല്ല സമീപഭാവിയിൽ എഡ്ജ് ഉപകരണങ്ങളിൽ ഇവ ധാരാളം ഉപയോഗിക്കുന്നതായി ഞങ്ങൾ കാണും ഉപകരണങ്ങൾ ക്ലോൺ ചെയ്യില്ല ഉപകരണത്തിൽ രഹസ്യ കീ ആവശ്യമില്ല എന്നിവ ഇത് ഉറപ്പാക്കും